ഗുഡ് ആഫ്റ്റർനൂൺ ഇപ്പോൾ നമുക്ക് മറ്റ് പ്രോജക്റ്റ് എസ്റ്റിമേറ്റ് ടെക്നിക്കുകൾ ആരംഭിക്കാം നമ്മൾ പ്രധാനമായും പാരാമെട്രിക് മോഡലുകളെക്കുറിച്ച് ഒരു തുടക്കം കുറിക്കും പ്രത്യേകിച്ച് ആൽബ്രെക്റ്റ് ഐഎഫ്പിയുജി ഫംഗ്ഷൻ പോയിൻറ് മോഡൽ Albrecht IFPUG function point ഒരു പാരാമെട്രിക് മോഡൽ എന്താണെന്ന് നമുക്ക് നോക്കാം തുടർന്ന് വലുപ്പത്തിനായുള്ള പാരാമെട്രിക് മോഡൽ കാണും വലുപ്പത്തിനായുള്ള പാരാമെട്രിക് മോഡലിന്റെ ഒരു പ്രധാന ഉദാഹരണം ഫംഗ്ഷൻ പോയിന്റുകളാണ് ഫംഗ്ഷൻ പോയിന്റുകൾ സാധാരണയായി ലൈൻസ് ഓഫ് കോഡ് കണക്കാക്കാൻ ഉപയോഗിക്കുന്നു ശ്രമത്തിനുപകരം ഫംഗ്ഷൻ പോയിന്റിൽ നിന്ന് നേരിട്ട് ശ്രമം കണക്കാക്കാനാവില്ലെന്ന് പറയാം ആദ്യം നമ്മൾ ലൈൻസ് ഓഫ് കോഡ് കണക്കാക്കേണ്ടതുണ്ട് അവ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫംഗ്ഷൻ പോയിന്റുകലാൽ ശ്രമം കണക്കാക്കാം ഈ മോഡൽ ഇതുപോലെ പ്രവർത്തിക്കുന്നു ഇത് ഫയൽ തരങ്ങളുടെ എണ്ണവും ഇൻപുട്ട് ഔട്ട്പുട്ട് ഇടപാട് തരങ്ങളുടെ എണ്ണവുമാണ് ഇൻപുട്ട് ആയി എടുക്കുന്നത് തുടർന്ന് അത് എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യുന്നു തുടർന്ന് അത് സിസ്റ്റം വലുപ്പം ഔട്ട്പുട്ടായി സൃഷ്ടിക്കും എൽഒസി മോഡലിന്റെ നിരവധി പോരായ്മകൾ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു ഈ ഫംഗ്ഷൻ പോയിൻറ് സമീപനം ഈ എൽഒസിയുടെ കാര്യത്തിൽ അവ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കും വലുപ്പത്തിന്റെ വ്യത്യസ്ത പാരാമെട്രിക് മോഡലുകൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നോക്കാം ആദ്യം നമ്മൾ ആൽബ്രെക്റ്റ് ഐഎഫ്പിയുജി ഫംഗ്ഷൻ പോയിന്റുകൾ Albrecht IFPUG function point കാണും തുടർന്ന് സൈമൺസ് മാർക്ക് II ഫംഗ്ഷൻ പോയിന്റുകൾ Symons Mark II function point പിന്നെ കോസ്മിക് ഫംഗ്ഷൻ പോയിന്റുകൾ കൊക്കോമോ 81 കൊക്കോമോ II എന്നിവ ചർച്ച ചെയ്യും ഈ പാരാമെട്രിക് മോഡലുകളിൽ നിന്ന് ഇപ്പോൾ ആൽബ്രെക്റ്റ് ഐഎഫ്പിയുജി ഫംഗ്ഷൻ പോയിന്റ് Albrecht IFPUG function point ചർച്ച ചെയ്യാം ഇപ്പോൾ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം എന്താണ് ഉദ്ദേശ്യം എന്താണ് ആനുകൂല്യങ്ങൾ ഉപയോഗത്തിന്റെ വ്യാപ്തി എന്താണ് ഐഎഫ്പിയുജി ഇന്റർനാഷണൽ ഫംഗ്ഷൻ പോയിൻറ്സ് യൂസർ ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്നു ഈ ഗ്രൂപ്പിന്റെ അടിസ്ഥാന ലക്ഷ്യം ഫംഗ്ഷൻ പോയിന്റുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു കാരണം എൽഒസിക്ക് നിരവധി പോരായ്മകളുണ്ടെന്ന് നമ്മൾ ഇതിനകം കണ്ടിട്ടുണ്ട് ഈ ഗ്രൂപ്പിന്റെ മറ്റൊരു ലക്ഷ്യത്തിലേക്ക് സ്ഥിരവും കൃത്യവുമായ എണ്ണൽ മാർഗ്ഗനിർദ്ദേശങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് ഐഎഫ്പിയുജി യിൽ നിന്ന് നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും അതിനാൽ ആനുകൂല്യങ്ങൾ മറ്റ് കൌണ്ടറുകളുമായി നെറ്റ്വർക്കിംഗ് ചെയ്യുന്നതുപോലെ നിങ്ങൾക്ക് നെറ്റ്വർക്കിംഗ് നടത്താം അതുപോലെ ഐഎഫ്പിയുജി കൌണ്ടിംഗ് പ്രാക്ടീസ് മാനുവലുകളും ലഭ്യമാണ് അവ ഗവേഷണ പ്രോജക്ടുകൾ ഹോട്ട്ലൈൻ ന്യൂസ് പേപ്പറുകൾ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഐഎഫ്പിയുജിന്റെ മറ്റ് ചില ആനുകൂല്യങ്ങളെ പിന്തുണയ്ക്കുന്നു മിക്കവാറും എല്ലാ വ്യവസായ മേഖലകളും ഉൾപ്പെടുന്ന മെമ്പർ കമ്പനികൾ പോലെയാണ് ഉപയോഗത്തിന്റെ വ്യാപ്തി ഈ ഗ്രൂപ്പിലെ 30 രാജ്യങ്ങളിൽ നിന്നായി 1200 ൽ അധികം അംഗങ്ങളുണ്ട് യഥാർത്ഥത്തിൽ ഈ ആൽബ്രെക്റ്റ് ഐഎഫ്പിയുജി ഫംഗ്ഷൻ പോയിൻറ് Albrecht IFPUG function point ആൽബ്രെക്റ്റ്സ് ഉപയോഗിച്ചതാണ് അതിനാൽ ആൽബ്രെക്റ്റ് ഐബിഎമ്മിൽ ജോലിചെയ്യുമ്പോൾ വ്യത്യസ്ത പ്രോഗ്രാമിംഗ് ഭാഷകളുടെ ആപേക്ഷിക ഉൽപാദനക്ഷമത അളക്കേണ്ട ആവശ്യമുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി അദ്ദേഹം വ്യത്യസ്ത പ്രോഗ്രാമിംഗ് ഭാഷകൾ ഉപയോഗിക്കുന്നു വ്യത്യസ്ത പ്രോഗ്രാമിംഗ് ഭാഷകളുടെ ആപേക്ഷിക ഉൽപാദനക്ഷമത അളക്കേണ്ട ആവശ്യമുണ്ടെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു ലൈൻസ് ഓഫ് കോഡ് കണക്കാക്കാതെ ഒരു ആപ്ലിക്കേഷന്റെ വലുപ്പം അളക്കുന്നതിനുള്ള ചില മാർഗ്ഗങ്ങളും അദ്ദേഹത്തിന് ആവശ്യമാണ് കാരണം ലൈൻസ് ഓഫ് കോഡ് എണ്ണാൻ നിരവധി പോരായ്മകളുണ്ട് അതിനാൽ ഫംഗ്ഷൻ പോയിന്റ് വിശകലനം നടത്തുന്നതിനുള്ള അഞ്ച് പാരാമീറ്ററുകൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു ഒരു വിവര സിസ്റ്റത്തിന്റെ വലുപ്പത്തെക്കുറിച്ച് ഒരു സൂചന ലഭിക്കുന്നതിന് ഓരോ തരത്തിലുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹം കണക്കാക്കി ഒരു വിവര സിസ്റ്റത്തിന്റെ വലുപ്പം കണക്കാക്കാൻ ആദ്യം അഞ്ച് പാരാമീറ്ററുകൾ തിരിച്ചറിഞ്ഞതായും ഓരോ തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും സംഭവങ്ങൾ കണക്കാക്കിയതായും അദ്ദേഹം കണക്കാക്കി അടിസ്ഥാനപരമായി ഇന്നലെ ഇവയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു ടോപ്പ് ഡൌൺ സമീപനം ബോട്ട൦ അപ്പ് സമീപനം മുതലായ വ്യത്യസ്ത പ്രോജക്റ്റ് എസ്റ്റിമേറ്റ് ടെക്നിക്കുകൾ അതിനാൽ ഈ ആൽബ്രെക്റ്റ് ഐഎഫ്പിയുജി ഫംഗ്ഷൻ പോയിൻറ് Albrecht IFPUG function point വിശകലനം ഒരു ടോപ്പ് ഡൌൺ സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇപ്പോൾ എൽഓസി ഉപയോഗിക്കരുതെന്ന് ഐഎഫ്പിയുജി കരുതുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം ഇത് ഫംഗ്ഷൻ പോയിന്റ് ഉപയോഗിക്കും അവസാന ക്ലാസിലെ എൽഒസിയുടെ പോരായ്മകൾ നമ്മൾ ഇതിനകം കണ്ടു അവ വേഗത്തിൽ പരിഷ്കരിക്കാം ലൈൻസ് ഓഫ് കോഡ് ലാഭകരമായ രൂപകൽപ്പനയ്ക്ക് പ്രതിഫലം നൽകുകയും സംക്ഷിപ്ത രൂപകൽപ്പനയ്ക്ക് പിഴ ചുമത്തുകയും ചെയ്യുന്നുവെന്ന് നമ്മൾക്കറിയാം അതിനാൽ നിങ്ങളുടെ രൂപകൽപ്പന സംക്ഷിപ്തമാണെങ്കിൽ അത് നിങ്ങളെ ശിക്ഷിക്കും ലൈൻസ് ഓഫ് കോഡിനു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഐഎസ്ഒ അല്ലെങ്കിൽ ഇല്ല അത് മറ്റൊരു പോരായ്മയാണ് ഫംഗ്ഷൻ പോയിൻറ് മറ്റെവിടെയെങ്കിലും ഐഎസ്ഒ മാനദണ്ഡങ്ങളെ സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് നോക്കാം വിവിധ പ്ലാറ്റ്ഫോമുകളിലോ വ്യത്യസ്ത ഭാഷകളിലോ വ്യത്യസ്ത ഓർഗനൈസേഷനുകളിലോ സാധാരണവൽക്കരിക്കുന്നതിന് ഇത് ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് നമ്മൾക്കറിയാം ചില 4 ജിഎല്ലിന് ഈ ലൈൻസ് ഓഫ് കോഡ് ഇല്ല അതിനാൽ ലൈൻസ് ഓഫ് കോഡ് ആ ഭാഷകൾക്ക് അനുയോജ്യമായതായിരിക്കില്ല കൂടാതെ ലൈൻസ് ഓഫ് കോഡ് അത് തെറ്റിദ്ധരിപ്പിക്കും ഒരു ഫംഗ്ഷൻ പോയിന്റ് പോലുള്ള മികച്ച ഒരു പ്രധാനത്തിനായി ശ്രമിക്കുന്നതിനേക്കാൾ ഒരാൾ എൽഓസി ഉപയോഗിക്കാതിരിക്കാനുള്ള ചില കാരണങ്ങൾ ഇവയാണ് ഫംഗ്ഷൻ പോയിന്റുകൾ എങ്ങനെയാണ് എൽഒസി പ്രശ്നങ്ങൾ മറികടക്കുന്നത് ഒന്ന് ഫംഗ്ഷൻ പോയിന്റുകൾ ഭാഷയിൽ നിന്ന് സ്വതന്ത്രമാണ് എൽഒസി എങ്ങനെയെങ്കിലും ഭാഷയെ ആശ്രയിച്ചുള്ള പ്ലാറ്റ്ഫോമിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന്നമ്മൾ ഇതിനകം കണ്ടു പക്ഷേ ഭാഷകളിൽ നിന്ന് സ്വതന്ത്രമോ ഉപകരണങ്ങളിൽ നിന്ന് സ്വതന്ത്രമോ രീതിശാസ്ത്രത്തിൽ നിന്ന് സ്വതന്ത്രമോ ആയ ഫംഗ്ഷൻ പോയിന്റുകൾ അവ നടപ്പിലാക്കലിന് വേണ്ടി ഉപയോഗിക്കുന്നു വിശകലനത്തിലും രൂപകൽപ്പനയിലും അവ നേരത്തേ തന്നെ കണക്കാക്കാം ആവശ്യകത വിശകലനം സവിശേഷത രൂപകൽപ്പന എന്നിവ പോലുള്ള വിശകലന രൂപകൽപ്പനയുടെ ആദ്യ ഘട്ടങ്ങളിൽ എൽഓസി സമീപനത്തിലൂടെ ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് കണ്ടു അതേസമയം ഫംഗ്ഷൻ പോയിന്റ് വിശകലനം രൂപകൽപ്പന എന്നിവ പോലുള്ള സോഫ്റ്റ്വെയർ വികസനത്തിന്റെ പ്രാരംഭ ഘട്ടത്തിൽ എന്ത് വലുപ്പം ഉണ്ടെന്നു കണക്കാക്കാൻ ഉപയോഗിക്കാം ഫംഗ്ഷൻ പോയിന്റുകൾ സിസ്റ്റത്തിന്റെ ബാഹ്യ കാഴ്ചയെ അടിസ്ഥാനമാക്കിയുള്ളതിനാൽ സോഫ്റ്റ്വെയറിന്റെ സാങ്കേതികേതര ഉപയോക്താക്കളാണെങ്കിൽപ്പോലും ഏത് ഫംഗ്ഷൻ പോയിന്റുകളാണ് ശരി അളക്കുന്നതെന്ന് അവർക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും ഈ ഫംഗ്ഷൻ പോയിന്റുകൾ എന്താണ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ അളക്കുന്നതെന്നോ നന്നായി മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നു ഇപ്പോൾ ഫംഗ്ഷൻ പോയിന്റ് കൌണ്ടിങ്ങിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഉപയോക്താവ് അഭ്യർത്ഥിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തെ ഇത് അളക്കുന്നു ഇത് അടിസ്ഥാനപരമായി ഉപയോക്തൃ അഭ്യർത്ഥനയ്ക്കും ഉപയോക്താവിനും ലഭിക്കുന്ന പ്രവർത്തനത്തെ അളക്കും അതുപോലെ ഇത് നടപ്പിലാക്കുന്നതിനായി ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യയിൽ നിന്ന് സ്വതന്ത്രമായി സോഫ്റ്റ്വെയർ വികസനവും പരിപാലനവും അളക്കുന്നു ഇത് ഉപയോഗിച്ച ഏതൊരു സാങ്കേതികവിദ്യയിൽ നിന്നും സ്വതന്ത്രമാണ് അതിനാലാണ് സോഫ്റ്റ്വെയർ വികസനവും പരിപാലന പ്രവർത്തന ശ്രമങ്ങളും അളക്കാൻ ഇതിന് കഴിയുന്നത് അളക്കൽ പ്രക്രിയയുടെ ഓവർഹെഡ് കുറയ്ക്കുന്നതിന് ഇത് വളരെ ലളിതമാണ് അതിനാൽ ഫംഗ്ഷൻ പോയിന്റ് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അളക്കൽ പ്രക്രിയയുടെ ഓവർഹെഡ് കുറയ്ക്കാൻ കഴിയും അതുപോലെ തന്നെ വിവിധ പ്രോജക്ടുകൾക്കും ഓർഗനൈസേഷനുകൾക്കുമിടയിൽ ഇതിനു സ്ഥിരമായ ഒരു അളവുണ്ട് എന്നതാണ് പിന്നെ എന്തിനാണ് നമ്മൾ കൌണ്ട് ഫംഗ്ഷൻ പോയിന്റുകൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ് നിങ്ങൾ ഫംഗ്ഷൻ പോയിന്റുകൾ കണക്കാക്കേണ്ടത് ഇത് കോഡിംഗിന് മാത്ര൦ ഉപയോഗിക്കാൻ കഴിയുമെന്നല്ല എന്നാൽ കോഡിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് ആവശ്യകത വിശകലന ഘട്ടവും രൂപകൽപ്പനയും ആയിരിക്കാം അതിനാലാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ ആദ്യഘട്ടങ്ങളിൽ ഉപയോഗിച്ചതെന്ന് പറയുന്നു പലപ്പോഴും ഇത് ഉപയോഗിക്കുന്നതു വ്യത്യാസപ്പെടാം അതിനാൽ ഒരു പ്രോജക്റ്റ് എന്താണ് വിതരണം ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എത്രയും വേഗം കണക്കാക്കാൻ കഴിയുമെന്ന് കാണുന്നു എത്രയും വേഗം അത് നിയന്ത്രിക്കപ്പെടുമ്പോൾ അത് മികച്ച നിയന്ത്രണത്തിലാകും നിങ്ങൾക്ക് അത് നിരീക്ഷിക്കാൻ കഴിയും ഐഎഫ്പിയുജി 4 1 പ്രകാരം നിരവധി നിയമങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും ഉണ്ട് ഈ നിയമങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും ആവശ്യകതകൾ പരിഹരിച്ചുകഴിഞ്ഞാൽ ഫംഗ്ഷൻ പോയിൻറുകൾ എണ്ണാൻ സഹായിക്കുന്നു അതിനാൽ ആവശ്യകതകൾ മരവിപ്പിച്ചുകഴിഞ്ഞാൽ ഐഎഫ്പിയുജി 4 1 ൽ നൽകിയിരിക്കുന്ന നിയമങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും ഉപയോഗിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഫംഗ്ഷൻ പോയിന്റുകൾ കണക്കാക്കാം ഫംഗ്ഷൻ പോയിന്റുകളിലെ വലുപ്പത്തിന്റെ എസ്റ്റിമേറ്റ് വികസന ചക്രത്തിലുടനീളം തുടർച്ചയായി പരിഷ്കരിക്കാനാകും ദയവായി ഇത് ഒരു തവണ മാത്രം കണക്കാക്കുന്നില്ലെന്ന് കാണുക നിങ്ങൾ ആദ്യം ഒരു പ്രാരംഭ എസ്റ്റിമേറ്റ് തയ്യാറാക്കണം തുടർന്ന് എസ്റ്റിമേറ്റുകൾ തുടർച്ചയായി പരിഷ്കരിക്കാനാകും അല്ലെങ്കിൽ വികസന ജീവിതചക്രത്തിലുടനീളം വ്യത്യസ്ത വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഫംഗ്ഷൻ പോയിന്റുകൾ വികസന പ്രക്രിയയിലുടനീളം വീണ്ടും വിവരിക്കണമെന്ന് ഓർമ്മിക്കുക വികസന പ്രക്രിയയിലുടനീളം അവ പരിഷ്കരിക്കാനാകും അതിനാൽ ഇതിന് വ്യാപ്തി അല്ലെങ്കിൽ ക്രീപ്പ് തകർച്ച എന്നിവ അളക്കാൻ കഴിയും ഫംഗ്ഷൻ പോയിന്റ് കണക്കുകൂട്ടലിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനാൽ വോട്ടെണ്ണൽ വ്യാപ്തിയും ആപ്ലിക്കേഷൻ അതിർത്തിയും വോട്ടെണ്ണലിന്റെ ഈ വ്യാപ്തി എന്താണ് ആദ്യം തിരിച്ചറിയേണ്ട ആപ്ലിക്കേഷൻ അതിർത്തി എന്താണ് എന്ന് ആദ്യ ഘട്ടത്തിൽ നിങ്ങൾ തിരിച്ചറിയണം അതിനുശേഷം നിങ്ങൾ രണ്ട് കാര്യങ്ങൾ കണക്കാക്കണം ഡാറ്റാ ഫംഗ്ഷനുകളും അതുപോലെ തന്നെ ഇടപാട് ഫംഗ്ഷനുകളും കണക്കാക്കണം ഇൻപുട്ട് പോലുള്ള ഡാറ്റ ഫംഗ്ഷനുകളിൽ ഇൻപുട്ട് ഡാറ്റ ഔട്ട്പുട്ട് ചെയ്യുക ഔട്ട്പുട്ട് ഡാറ്റ മുതലായവ നിങ്ങൾ കണക്കാക്കേണ്ടതുണ്ട് പ്രധാനമായും ഫയൽ ഇടപാടുകൾ മുതലായവ അല്ലെങ്കിൽ നിങ്ങൾ കണക്കാക്കേണ്ട ഇന്റർഫേസുകൾ എന്തൊക്കെയാണ് അതിനുശേഷം നിങ്ങൾ ഫംഗ്ഷൻ പോയിന്റ് നിർണ്ണയിക്കണം ഇത് ഇപ്പോൾ ക്രമീകരിക്കപ്പെട്ടിട്ടില്ല നിങ്ങൾ മറ്റൊന്നും പരിഷ്കരിച്ചിട്ടില്ല ഇതിനെ ക്രമീകരിക്കാത്ത ഫംഗ്ഷൻ പോയിന്റ് എന്ന് വിളിക്കുന്നു അതിനാൽ എന്ത് ഡാറ്റാ ഫംഗ്ഷനുകളും ട്രാൻസാക്ഷൻ ഫംഗ്ഷനുകളുടെ എണ്ണവും ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ക്രമീകരിക്കാത്ത ഫംഗ്ഷൻ പോയിന്റ് എണ്ണം നിർണ്ണയിക്കാനാകും എന്നിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടതുണ്ട് കാരണം നിങ്ങൾ ഫംഗ്ഷൻ പോയിന്റുകൾ പരിഷ്കരിക്കേണ്ടിവരുമെന്ന് ഞാൻ ഇതിനകം പറഞ്ഞിട്ടുണ്ട് മൂല്യ ക്രമീകരണ ഘടകം എന്ന് വിളിക്കുന്ന ഒരു ഘടകം ഉപയോഗിച്ച് ഇത് എങ്ങനെ പരിഷ്കരിക്കാനാകും ഇത് കണ്ടെത്തുന്നതിന് ഒരു ഫോർമുലയുണ്ട് കുറച്ച് മിനിറ്റിനുശേഷം പറയാം മൂല്യ ക്രമീകരണ ഘടകം നിങ്ങൾ നിർണ്ണയിക്കണം ഇപ്പോൾ ഈ ക്രമീകരിക്കാത്ത ഫംഗ്ഷൻ പോയിന്റും ഇതാണ് മൂല്യം ക്രമീകരിക്കുന്ന ഘടകവും ക്രമീകരിച്ച ഫംഗ്ഷൻ പോയിന്റ് എണ്ണം നിങ്ങൾക്ക് നൽകുന്നതിന് അവ ഗുണിതമാകും അതിനാൽ അവ പിന്തുടരുന്ന ഫംഗ്ഷൻ പോയിന്റ് കണക്കുകൂട്ടൽ ഘട്ടങ്ങൾ ഇങ്ങനെയാണ് ഫംഗ്ഷൻ പോയിന്റ് വിശകലനത്തിന്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫംഗ്ഷൻ പോയിന്റ് വിശകലനത്തിൽ അഞ്ച് പ്രധാന ഘടകങ്ങൾ അല്ലെങ്കിൽ ബാഹ്യ ഉപയോഗ തരങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബാഹ്യ ഇൻപുട്ടുകൾ ബാഹ്യ ഔട്ട്പുട്ടുകൾ ബാഹ്യ അന്വേഷണങ്ങൾ ലോജിക്കൽ ആന്തരിക ഫയലുകൾ ബാഹ്യ ഇന്റർഫേസ് ഫയലുകൾ എന്നിവ അതിനാൽ ഫംഗ്ഷൻ പോയിന്റ് വിശകലനത്തിൽ അവ ഉപയോഗിക്കുന്ന അടിസ്ഥാന അഞ്ച് ഘടകങ്ങളാണ് ഇവ അവയെ ആൽബ്രെക്റ്റ് പദാവലിയിലും അറിയപ്പെടുന്നു അവ ബാഹ്യ ഉപയോക്തൃ തരങ്ങൾ എന്നും അറിയപ്പെടുന്നു ഇനി നമുക്ക് അഞ്ച് ഘടകങ്ങൾ നിർവചിക്കാം അവയുടെ സാധാരണ അർത്ഥവും നിർവചിക്കാം ബാഹ്യ ഇൻപുട്ട് നമ്മൾ ഇഐ എന്ന് വിളിക്കുന്നു അവ ആന്തരിക കമ്പ്യൂട്ടർ ഫയലുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഇടപാടുകളെ പ്രതിനിധീകരിക്കുന്നു ഇത് ആന്തരിക കമ്പ്യൂട്ടർ ഫയലുകൾ അപ്ഡേറ്റ് ചെയ്യും അതിനാൽ ഈ പ്രവർത്തനങ്ങളെ ബാഹ്യ ഇൻപുട്ട് തരങ്ങൾ എന്ന് വിളിക്കുന്നു ബാഹ്യ ഔട്ട്പുട്ട് തരങ്ങൾ ആന്തരിക കമ്പ്യൂട്ടർ ഫയലുകളിൽ നിന്ന് ഡാറ്റ എക്സ്ട്രാക്റ്റു ചെയ്ത് പ്രദർശിപ്പിക്കുന്ന ഇടപാടുകളാണ് ഇവിടെ ചെയ്യുന്നത് അതിനാൽ വിവരങ്ങൾ എക്സ്ട്രാക്റ്റുചെയ്യുന്ന ഇടപാട് അടിസ്ഥാനപരമായി ഔട്ട്പുട്ട് തരങ്ങളാണ് സാധാരണയായി വ്യത്യസ്ത റിപ്പോർട്ടുകൾ സൃഷ്ടിക്കുന്നത് ഉൾപ്പെടുന്നു നിങ്ങൾ റിപ്പോർട്ട് സൃഷ്ടിക്കുന്ന്നുവെങ്കിൽ ഇത് ഫംഗ്ഷന്റെ ഔട്ട്പുട്ട് തരമായിരിക്കും അടുത്തത് ബാഹ്യ അന്വേഷണ തരങ്ങളാണ് ഇവിടെ ഉപയോക്താവ് വിവരങ്ങൾ നൽകുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പക്ഷേ കമ്പ്യൂട്ടർ ഫയലുകൾ അപ്ഡേറ്റ് ചെയ്യരുത് അതിനാൽ ബാഹ്യ ഇൻപുട്ടിൽ അവർ കമ്പ്യൂട്ടർ ഫയലുകൾ അപ്ഡേറ്റുചെയ്യുന്ന ഇടപാടുകൾ ടൈപ്പുചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷേ ഇത് കേവലം അന്വേഷണമാണ് അപ്ഡേറ്റുകളൊന്നും ഉണ്ടാകില്ല വിവരങ്ങൾ മാത്രം നൽകുന്ന ഇടപാടുകൾക്ക് ഉപയോക്താവ് മാത്രമേ തുടക്കമിട്ടിട്ടുള്ളൂ ഉപയോക്താവിന് ആവശ്യമുള്ള വിവരങ്ങളിലേക്ക് സിസ്റ്റത്തെ നയിക്കുന്ന ചില ഡാറ്റ സാധാരണയായി ഉപയോക്താവ് ഇൻപുട്ട് ചെയ്യുന്നു ഇവിടെ ബാഹ്യ അന്വേഷണ തരങ്ങളിൽ ഉപയോക്താവ് സിസ്റ്റത്തെ വിവരങ്ങളിലേക്ക് നയിക്കുന്ന ചില ഡാറ്റ ഇൻപുട്ട് ചെയ്യും അത് ഉപയോക്താവിന് ആവശ്യമായ വിവരങ്ങളിലേക്ക് സിസ്റ്റത്തെ നയിക്കുന്നു അടുത്തത് അതിന്റെ ലോജിക്കൽ ഇന്റർഫേസ് അല്ലെങ്കിൽ എൽഐഎഫ് ഫയലുകൾ ആണ് ഇത് ഒരു സിസ്റ്റം വിശകലന രൂപകൽപ്പന നിബന്ധനകളിലെ ഡാറ്റാ സ്റ്റോറുമായി ഏകദേശം തുല്യമാണ് അതിനാൽ സിസ്റ്റം അനാലിസിസ് ഡിസൈൻ നിബന്ധനകൾ പഠിക്കുന്നവർ ചില ഡാറ്റ സ്റ്റോറുകൾ പഠിച്ചിരിക്കണം ഇവിടെ ഈ എൽഐഎഫ് ഏകദേശം തുല്യമാണ് ഇത് ഡാറ്റ സംഭരിക്കുന്നതിന് തുല്യമാണ് സൃഷ്ടിച്ചതും സാധാരണയായി ഈ തരങ്ങൾ ടാർഗെറ്റ് സിസ്റ്റം സൃഷ്ടിക്കുകയും ആക്സസ് ചെയ്യുകയും ചെയ്യുന്നു ഇത് പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ ഇത് പ്രതിനിധീകരിക്കുന്ന ബാഹ്യ ഇന്റർഫേസ് ഫയൽ തരങ്ങൾ ഒരു ഡാറ്റ സ്റ്റോറിൽ നിന്ന് വീണ്ടെടുത്ത ഡാറ്റ മറ്റൊരു വ്യത്യസ്ത ആപ്ലിക്കേഷൻ യഥാർത്ഥത്തിൽ പരിപാലിക്കുന്നു അതിനാലാണ് ഇത് ബാഹ്യ ഇന്റർഫേസ് ഫയൽ തരങ്ങൾ എന്നറിയപ്പെടുന്നത് ഇവ അഞ്ചെണ്ണം ചർച്ച ചെയ്ത ഫംഗ്ഷൻ പോയിന്റ് പാരാമീറ്ററുകളാണെന്നും അടിസ്ഥാനപരമായി നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നു നിങ്ങൾക്ക് സ്വയം കാണാനാകുന്ന കൂടുതൽ വിശദീകരണം നൽകിയിരിക്കുന്നു നിർവചനങ്ങളുടെ ചില ഉദാഹരണങ്ങൾ നമുക്കു കാണാം ബാഹ്യ ഇൻപുട്ട് എന്നാൽ ആപ്ലിക്കേഷൻ ബൌണ്ടറിയുടെ പുറത്തു നിന്നും വരുന്ന ഡാറ്റ പ്രോസസ്സ് ചെയ്യും എന്നാണ് ഇത് നൽകുന്ന ബാഹ്യ ഇൻപുട്ട് ഉദാഹരണമായി ചില ഓൺലൈൻ എൻട്രിയും ബാഹ്യ ഇൻപുട്ടും നൽകുന്നു തുടർന്ന് ഈ ഇടപാടിൽ എന്താണ് സംഭവിക്കുക അത് ഉപഭോക്തൃ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും തുടർന്ന് ഉപഭോക്തൃ വിവര ഫയൽ എവിടെയും അപ്ഡേറ്റുചെയ്യും അതിനാൽ ഇവിടെ ഈ ബാഹ്യ ഇൻപുട്ട് ഒരു ബാഹ്യ ആപ്ലിക്കേഷനിൽ നിന്നുള്ള ഡാറ്റ ഒരു അതിർത്തിയിൽ നിന്ന് പ്രോസസ്സ് ചെയ്യും അത് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യും ബാഹ്യ ഔട്ട്പുട്ടിൽ ഇത് അപ്ലിക്കേഷൻ അതിർത്തിക്ക് പുറത്ത് അയച്ച ഡാറ്റ സൃഷ്ടിക്കുന്നു ബാഹ്യ ഇൻപുട്ടിൽ ബാഹ്യ അപ്ലിക്കേഷൻ അതിർത്തിയിൽ നിന്നും ഡാറ്റ വരുന്നു പക്ഷേ ബാഹ്യ ഔട്ട്പുട്ടിൽ ഡാറ്റ അപ്ലിക്കേഷൻ അതിർത്തിക്ക് പുറത്ത് അയയ്ക്കുന്നു നിങ്ങൾ ഇവിടെ കാണുന്നു ഇത് കസ്റ്റമർ ഇൻഫർമേഷൻ ഫയലാണ് തുടർന്ന് ഉപഭോക്തൃ വിവരങ്ങളുടെ വിഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് ഒരു പ്രക്രിയയുണ്ട് ഇത് സമ്മറി കാറ്റഗറി പോലുള്ള വിവരങ്ങൾ ബാഹ്യ ഔട്ട്പുട്ടായ അന്തിമ ഉപയോക്താവിന് പുറത്തേക്ക് അയയ്ക്കുന്നു അതിനാൽത്തന്നെ ഇത് ബാഹ്യ ഔട്ട്പുട്ടിന്റെ ഒരു ഉദാഹരണമാണ് ഒരു അന്വേഷണത്തെക്കുറിച്ച് എന്താണ് പറയാൻ ഉള്ളത് ഡാറ്റ വീണ്ടെടുക്കുന്നതിന് കാരണമാകുന്ന ഒരു ഔട്ട്പുട്ടാണ് ബാഹ്യ അന്വേഷണത്തിൽ ഫലങ്ങളിൽ ഡിറായിവ് ഡാറ്റകളൊന്നുമില്ല ചില ഡാറ്റ വീണ്ടെടുക്കുന്നതിന് കാരണമാകുന്ന ചില ഡാറ്റ ഉൽപാദിപ്പിക്കുന്ന മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ ഇവിടെ നിങ്ങൾക്ക് കഴിയില്ല അതിനാൽ ഇവിടെയും ഈ ഫലത്തിലും ലഭിച്ച ഡാറ്റയൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല ഇവിടെ അന്തിമ ഉപയോക്താവ് ചില അന്വേഷണം ചോദിക്കുകയും ഉപഭോക്തൃ വിവരങ്ങളുടെ വിശദാംശങ്ങൾ ലഭിക്കുന്നത് ഈ അന്വേഷണം എന്തായിരിക്കുമെന്ന് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ ഇവ എളുപ്പത്തിലുള്ള പ്രോസസ് ഡിസ്പ്ലേ ഉപഭോക്തൃ വിവരങ്ങളാണ് ഇത് ഉപഭോക്തൃ വിവര ഫയലിൽ നിന്ന് ഡാറ്റ നേടുന്നു ഡാറ്റ ലഭിച്ച ശേഷം അത് അന്തിമ ഉപയോക്താവിന് കൈമാറുന്നു അതിനാലാണ് ഇത് ബാഹ്യ അന്വേഷണത്തിന്റെ ഒരു ഉദാഹരണം ആണ് അടുത്തത് ആന്തരിക ലോജിക് ഫയലിന്റെ നിർവചനമാണ് യുക്തിപരമായി ബന്ധപ്പെട്ട ഡാറ്റയുടെ ഉപയോക്താവിനെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പാണ് ആന്തരിക ലോജിക് ഫയൽ അതിനാൽ അടിസ്ഥാനപരമായി ഇത് ആപ്ലിക്കേഷന്റെ അതിർത്തിക്കുള്ളിൽ പരിപാലിക്കപ്പെടുന്ന യുക്തിപരമായി ബന്ധപ്പെട്ട ഡാറ്റയുടെ ഒരു കൂട്ടം ആണ് ഇത് ബാഹ്യമല്ലെന്ന് ഓർമ്മിക്കുക ഇത് നിങ്ങൾ കണ്ട ആപ്ലിക്കേഷന്റെ അതിർത്തിക്കുള്ളിൽ പരിപാലിക്കപ്പെടുന്നു അന്തിമ ഉപയോക്താവ് ചില ഉപഭോക്തൃ വിവരങ്ങൾ അയയ്ക്കുന്നു തുടർന്ന് ഈ പ്രോസസ്സ് ഉപഭോക്തൃ വിവരങ്ങൾ അപ്ഡേറ്റുചെയ്യുന്നു അതിനാൽ ഉപഭോക്തൃ വിവര ഫയലിനെ ഒരു ആന്തരിക ലോജിക്കൽ ഫയലായി പരിഗണിക്കും അവസാനത്തേത് ബാഹ്യ ഇന്റർഫേസ് ഫയലാണ് ഇത് ഉപയോക്താവിനു തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കൂട്ടം ഡാറ്റയാണ് അവ ആപ്ലിക്കേഷൻ റഫറൻസ് ചെയ്യുന്നു അടിസ്ഥാനപരമായി ഇത് ആപ്ലിക്കേഷൻ പരാമർശിക്കുന്ന ഒരു കൂട്ടം ഡാറ്റയാണ് പക്ഷേ ഇത് മറ്റൊരു ആപ്ലിക്കേഷന്റെ അതിർത്തിക്കുള്ളിൽ പരിപാലിക്കപ്പെടുന്നു ഇത് ആന്തരികമല്ല അതിനാലാണ് ബാഹ്യ ഇന്റർഫേസ് ഫയൽ എന്ന് പറയുന്നത് എന്താണ് സംഭവിക്കുന്നതെന്ന് ഇതിനകം ആന്തരികത്തിൽ കണ്ടു ഇത് ആപ്ലിക്കേഷന്റെ അതിർത്തിക്കുള്ളിലാണ് അതിനാലാണ് ഇത് ആന്തരിക ലോജിക്കൽ ഫയൽ എന്ന് അറിയപ്പെടുന്നത് എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഫയൽ അതിർത്തിക്ക് പുറത്ത് കാണാൻ കഴിയും ഇത് മറ്റൊരു അപ്ലിക്കേഷന്റെ അതിർത്തിക്കുള്ളിൽ പരിപാലിക്കുന്നത് ഇത് ഈ നിലവിലെ ആപ്ലിക്കേഷന്റെ അതിർത്തിക്ക് പുറത്താണ് അത് എവിടെയെങ്കിലും പുറത്താണ് അതിനാലാണ് പേര് ബാഹ്യ ഇന്റർഫേസ് ഫയൽ ഉദാഹരണത്തിന് ഇവിടെ അന്തിമ ഉപയോക്താവ് അപ്ഡേറ്റ് ചെയ്യുന്നത് മറ്റെവിടെയെങ്കിലും സിപ്പ് കോഡ് പട്ടികയിലെ സ്റ്റോറുകളിൽ പിൻ കോഡ് എന്നിവ സാധൂകരിക്കുക മൂല്യനിർണ്ണയത്തിനായി സന്ദേശം ഇവിടെ പോയി വരണം തുടർന്ന് അത് ഉപഭോക്തൃ വിവര ഫയൽ അപ്ഡേറ്റ് ചെയ്യും അതിനാൽ ഇവിടെ പിൻ കോഡ് പട്ടിക ബാഹ്യ ഇന്റർഫേസ് ഫയലിൽ പ്രതിനിധീകരിക്കുന്നു ഇപ്പോൾ ഒരു വാങ്ങൽ ഓർഡർ നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ ഉദാഹരണം വേഗത്തിൽ എടുക്കാം ഇൻപുട്ട് ഡാറ്റ ഇനങ്ങൾ തീയതി വിതരണക്കാരൻ നമ്പർ ഉൽപ്പന്ന കോഡ് ആവശ്യമായ അളവ് ആവശ്യമായ തീയതി തുടങ്ങിയവ ഔട്ട്പുട്ട് ഡാറ്റ ഇനങ്ങൾ വാങ്ങൽ നമ്പർ പോലെയാണ് ഇത് സിസ്റ്റം ജനറേറ്റു ചെയ്യും ഉൽപ്പന്നം വാങ്ങൽ ഓർഡർ വിതരണക്കാരൻ വാങ്ങൽ ഓർഡർ ഇനം മുതലായവയെ പരാമർശിക്കുന്ന എന്റിറ്റികളാണ് ഈ തരം എന്റിറ്റികൾ ഇപ്പോൾ സിസ്റ്റത്തിന്റെ വലുപ്പം കണക്കാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഓരോ ഫംഗ്ഷൻ എണ്ണവും ആദ്യം എൻ ഐ ആയ ഇൻപുട്ട് ഡാറ്റ ഇനങ്ങളുടെ എണ്ണം കണ്ടെത്തുന്നു തുടർന്ന് ഔട്ട്പുട്ട് ഡാറ്റ ഇനങ്ങളുടെ എണ്ണം എൻ ഓ തുടർന്ന് നിരക്ക് അല്ലെങ്കിൽ അപ്ഡേറ്റുചെയ്ത എന്റിറ്റികളുടെ എണ്ണം എൻ ഇ അപ്പോൾ പ്രവർത്തന എണ്ണം കണ്ടുപിടിച്ചതിനു ശേഷം ഓരോ ഫങ്ഷൻ എണ്ണം കണ്ടുപിടിച്ചതിനു ശേഷം ഇവ ചേർക്കേണ്ടതാണ് ഇത് മുഴുവൻ സിസ്റ്റത്തിനായുള്ള ഇൻപുട്ട് ഡാറ്റ ഇനങ്ങളുടെ എണ്ണം മുഴുവൻ സിസ്റ്റത്തിനായുള്ള ഔട്ട്പുട്ട് ഡാറ്റ ഇനങ്ങളുടെ എണ്ണം മുഴുവൻ സിസ്റ്റത്തിനും N e എന്ന് റീഡ് ചെയ്തതോ അപ്ഡേറ്റു ചെയ്തതോ ആയ എന്റിറ്റികളുടെ എണ്ണം എന്നിവ നൽകും നിങ്ങൾ ഒരു ചെറിയ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇതാണ് ആവശ്യകതകൾ ഉള്ള ഒരു സാമ്പിൾ ഉദാഹരണം ഈ ആവശ്യകതകളുടെ പ്രവർത്തനപരത ഇവയാണ് അതിനാൽ എ 1 ന് 10 ഇൻപുട്ടുകൾ ഉണ്ട് എ 1ന് 2 ഔട്ട്പുട്ടുകൾ ഉണ്ട് എ 2 എന്റിറ്റി ആക്സസ്സുകൾ 4 ആണ് ഇതുപോലെ 12 ആവശ്യകതകൾക്ക് ഇൻപുട്ടുകൾ കണ്ടെത്തുന്നു എല്ലാ 12 ആവശ്യകതകളും ഔട്ട്പുട്ടുകൾ കണ്ടെത്തുന്നു അങ്ങനെ എല്ലാ 12 ആവശ്യകതകൾക്കും ആക്സസ്സുചെയ്ത എല്ലാ എന്റിറ്റികൾക്കും കൌണ്ട് കണ്ടെത്തണം അപ്പോൾ നിങ്ങൾ എന്തുചെയ്യണം ഇവയെല്ലാം ചെറിയ അറ്റങ്ങളാണ് ഇവയെല്ലാം ചെറിയ എൻ ഉപയോഗിച്ച് പ്രതിനിധീകരിക്കുന്നു ഓരോ ഫംഗ്ഷൻ എണ്ണത്തിനും ഇത് കാണാൻ കഴിയും കൂടാതെ മുഴുവൻ സിസ്റ്റത്തിനും ഇത് മൂലധന N നെ ആശ്രയിച്ചിരിക്കും അതിനാൽ മൂലധനം N i ഈ എണ്ണങ്ങളുടെ ആകെത്തുക 120 ആയിരിക്കും ഇതുപോലെ ആ മുഴുവൻ സിസ്റ്റത്തിൻറെ വികസനത്തിലും ഔട്ട്പുട്ടുകളുടെ എണ്ണം എൻ ഓ അത് 120 ആണ് സിസ്റ്റം ഈ എണ്ണങ്ങളുടെ ആകെത്തുകയായിരിക്കും അത് 60 ന് തുല്യമാണ് അതിനാൽ ഈ രീതിയിൽ ഇൻപുട്ടുകൾ ഔട്ട്പുട്ടുകൾ എന്റിറ്റി ആക്സസ്സുചെയ്തത് എന്താണെന്ന് കണ്ടെത്താനാകും ഇത് ഈ രീതിയിൽ മുഴുവൻ ആപ്ലിക്കേഷന്റെയും വലുപ്പവുമായി ഏകദേശം യോജിക്കുന്നു ഇപ്പോൾ എന്താണ് കാണുന്നത് വ്യത്യസ്ത ആപ്ലിക്കേഷനുകൾക്കായുള്ള ഫംഗ്ഷൻ പോയിന്റ് കണ്ടെത്തുന്നതിനുള്ള ഒരു ഫോർമുല ആൽബ്രെക്ടിനു ഉണ്ട് UFP ∑ തന്നിരിക്കുന്ന തരത്തിലുള്ള ഘടകങ്ങളുടെ എണ്ണം × ഭാരം അതിനാൽ ബാഹ്യ ഉപയോക്തൃ തരങ്ങളെ വ്യത്യസ്ത വിഭാഗങ്ങളായി അദ്ദേഹം തരംതിരിച്ചിട്ടുണ്ട് ചില ബാഹ്യ ഉപയോക്തൃ തരങ്ങൾ കുറഞ്ഞ സങ്കീർണ്ണമായവയാകാം അവയിൽ ചിലത് ഇടത്തരം സങ്കീർണ്ണവും ചിലത് ഉയർന്ന സങ്കീർണ്ണവുമാണ് അതനുസരിച്ച് അദ്ദേഹം ചില തൂക്കങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് സങ്കീർണ്ണതയെ ആശ്രയിച്ച് ഈ ബാഹ്യ ഉപയോക്തൃ തരങ്ങൾക്കായി ചില മൾട്ടിപ്ലയറുകൾ ബാഹ്യ ഇൻപുട്ടിനായി ഇത് കുറഞ്ഞ സങ്കീർണ്ണമായ അല്ലെങ്കിൽ സങ്കീർണ്ണമായ അപ്ലിക്കേഷനാണെങ്കിൽ ഇത് 3 ആണ് ഒരു ഇടത്തരം സങ്കീർണ്ണമായ അപ്ലിക്കേഷന് ഇഐ 4 ന് തുല്യമാണ് ഉയർന്ന സങ്കീർണ്ണമായ ആപ്ലിക്കേഷന് ഇഐ യുടെ മൂല്യം 6 ന് തുല്യമാണ് വ്യത്യസ്ത ബാഹ്യ ഉപയോക്തൃ തരങ്ങൾക്കായി എവിടെയെങ്കിലും ചില ഗുണിതങ്ങൾ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിനെ ആൽബ്രെക്റ്റ് എന്ന് വിളിക്കുന്നു ഇവയെ ആൽബ്രെക്റ്റ് സങ്കീർണ്ണത മൾട്ടിപ്ലയറുകൾ എന്ന് വിളിക്കുന്നു ആ ഗുണിതങ്ങൾ ഫംഗ്ഷൻ പോയിന്റുകളുടെ ഈ കണക്കുകൂട്ടലിൽ ഉപയോഗിക്കുക അക്ഷരത്തെറ്റ് പരിശോധനയ്ക്കായി ഒരു സോഫ്റ്റ്വെയർ വികസിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് എങ്ങനെ കണ്ടെത്താനാകും എന്നതിന് ഒരു ചെറിയ ഉദാഹരണം വേഗത്തിൽ എടുക്കാം ഒരു ഡോക്യുമെന്റ് ഫയലും ഓപ്ഷണൽ പേഴ്സണൽ ഡയറക്ടറി ഫയലും ഇൻപുട്ടായി സ്പെൽ ചെക്കർ സ്വീകരിക്കുന്നു സ്പെൽ ചെക്കർ ഈ രണ്ട് ഫയലുകളിലും ഉള്ളടക്കമില്ലാത്ത എല്ലാ വാക്കുകളും ഇത് പട്ടികപ്പെടുത്തുന്നു പ്രോസസ് ചെയ്ത വാക്കുകളുടെ എണ്ണം ഉപയോക്താവിന് അന്വേഷിക്കാൻ കഴിയും പ്രോസസ്സിംഗ് സമയത്ത് ഏത് ഘട്ടത്തിലും കാണപ്പെടുന്ന വാക്കുകളുടെ എണ്ണവും അക്ഷര പിശകുകളുടെ എണ്ണവും ഉപയോക്താവിന് ചോദിക്കാൻ കഴിയും നിങ്ങൾക്ക് ഡാറ്റാ ഫ്ലോ ഡയഗ്രം അറിയാമെന്ന് കരുതുന്നുവെങ്കിൽ അവ വരയ്ക്കാൻ കഴിയുമെങ്കിൽ ഡാറ്റാ ഫ്ലോ ഡയഗ്രം അല്ലെങ്കിൽ സന്ദർഭ ഡയഗ്രം എളുപ്പത്തിൽ വരയ്ക്കാൻ കഴിയും അവിടെ ഉപയോക്താവിന് ഈ വിവരങ്ങൾ പ്രോസസ്സിലേക്ക് അയയ്ക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കൂടാതെ പ്രോസസ്സിന് ചില പ്രോസസ്സിംഗ് ചെയ്യാൻ കഴിയും ഈ സ്പെൽ ചെക്കറിന് കുറച്ച് പ്രോസസ്സിംഗ് നടത്താനും ഈ ഔട്ട്പുട്ടുകൾ നൽകാനും കഴിയും ഇപ്പോൾ നമ്മൾ ഫംഗ്ഷൻ പോയിന്റ് കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ 2 ഇൻപുട്ടുകൾ കാണാം ഒരു ഡോക്യുമെന്റ് ഫയലും ഓപ്ഷണൽ പേഴ്സണൽ ഡയറക്ടറിയും ഞാൻ കാണിച്ച രണ്ട് ഇൻപുട്ടുകൾ 2 ഉപയോക്തൃ ഇൻപുട്ട് ഡോക്യുമെൻറ് ഫയൽനാമവും വ്യക്തിഗത നിഘണ്ടു നാമവും ആണ് അവ ശരാശരി കോംപ്ലക്സ് അല്ലെങ്കിൽ മീഡിയം കോംപ്ലക്സ് ആയി റേറ്റുചെയ്യാം 3 ഉപയോക്തൃ ഔട്ട്പുട്ടുകൾ ഉണ്ട് അവ എന്താണ് പിശക് അല്ലെങ്കിൽ റിപ്പോർട്ട് പദങ്ങളുടെ എണ്ണം അക്ഷരത്തെറ്റുള്ള പിശക് എണ്ണം എന്നിവ ശരാശരി സങ്കീർണ്ണത അല്ലെങ്കിൽ ഇടത്തരം സങ്കീർണ്ണതയായി കണക്കാക്കും ഉപയോക്താവ് രണ്ട് കാര്യങ്ങൾ അഭ്യർത്ഥിക്കുന്നു 2 ചോദ്യങ്ങൾ ഉണ്ടാകും 2 ചോദ്യങ്ങൾ എന്തൊക്കെയാണ് പ്രോസസ്സ് ചെയ്ത പദങ്ങളുടെ എണ്ണവും അക്ഷര പിശകുകളുടെ എണ്ണവും അവ ചോദ്യങ്ങളായി മാറ്റാം അതിനാൽ അവ ശരാശരിയായി കണക്കാക്കാം അവ 2 ഉപയോക്തൃ അന്വേഷണങ്ങൾ അല്ലെങ്കിൽ 2 ഉപയോക്തൃ അഭ്യർത്ഥനയാണ് 1 ആന്തരിക ലോജിക്കൽ ഫയൽ ഉണ്ട് അത് നിഘണ്ടുവാണ് അവിടെ സംഭരിച്ചിരിക്കുന്നവയിൽ 2 ബാഹ്യ ഫയലുകളുണ്ട് അവ എന്തൊക്കെയാണ് ഡോക്യുമെന്റ് ഫയലും വ്യക്തിഗത ഡയറക്ടറിയും വ്യക്തിഗത നിഘണ്ടു ശരാശരിയും പ്രശ്നത്തിലും അവ വിവരിച്ചിട്ടുണ്ട് കൂടാതെ ഡയഗ്രാമിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും ആയി പ്രതിനിധീകരിച്ചിരിക്കുന്നു ഇപ്പോൾ ഫംഗ്ഷൻ പോയിന്റ് കണ്ടെത്തുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം അതിനാൽ ആൽബ്രെക്റ്റ് ഒരു സമവാക്യം നിർദ്ദേശിച്ചു ഈ ഫോർമുല അനുസരിച്ച് ഈ ഫോർമുല എവിടെയായിരിക്കണമെന്ന് നോക്കാം ഈ സമവാക്യം ഇങ്ങനെ പറയുന്നു യുഎഫ്പി ഇൻപുട്ടുകൾ 4 ഔട്ട്പുട്ടുകൾ 5 അന്വേഷണങ്ങൾ 4 ഫയലുകൾ 10 ഇന്റർഫേസുകൾ 7 നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഫോർമുലയുണ്ട് യുഎഫ്പി ഇതുപോലെയായി കണക്കാക്കാം ഈ പാരാമീറ്ററിന്റെ സംഗ്രഹം നിങ്ങൾ എടുക്കുന്നതും അതിലേക്ക് വരുന്നതും ആയിരിക്കും നിങ്ങൾ ഈ പാരാമീറ്റർ ഏറ്റെടുക്കണം തുടർന്ന് അവിടെ ഭാരം വർദ്ധിക്കും ഇവിടെ ഇതിലേക്ക് ഉണ്ടായിരിക്കുകയും സംഗ്രഹം എടുക്കുകയും ചെയ്യും ഇവിടെ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ യുഎഫ്പി പാരാമീറ്ററുകൾ എന്താണെന്ന് കണക്കാക്കുന്നു അതിനാൽ യുഎഫ്പിയുടെ എണ്ണം 4 ഇൻപുട്ടുകളുടെ എണ്ണത്തിന് തുല്യമാണ് കൂടാതെ ഔട്ട്പുട്ടുകളുടെ എണ്ണം 5 ഉം 5 അന്വേഷണങ്ങളുടെ എണ്ണം 4 ഉം ഫയലുകളുടെ എണ്ണം 10 ഉം ഇന്റർഫേസുകളുടെ എണ്ണം 7 ഉം അതിനാൽ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ അടിസ്ഥാനപരമായി ഇവയാണ് ഭാരം 4 5 4 10 ഇവയാണ് ഭാരം ഒരു ശരാശരി പ്രോജക്റ്റിനായി തൂക്കം തിരഞ്ഞെടുക്കുന്നു കാരണം എല്ലാ പാരാമീറ്ററുകളും തരം ശരാശരിയാണെന്ന് കാണുക അതിനാൽ ഇവ ശരാശരി മൂല്യങ്ങളാണ് എടുത്തത് എന്നിട്ട് നിങ്ങൾ അവയെ ഗുണിച്ച് അവയുടെ സംഗ്രഹം എടുക്കുന്നു യുഎഫ്പി 55 ആയിരിക്കുമെന്ന് നിങ്ങൾ നിരീക്ഷിക്കുകയാണ് അതിനാൽ ഇത് ക്രമീകരിക്കാത്ത ഫംഗ്ഷൻ പോയിന്റാണ് ഈ ക്രമീകരിക്കാത്ത ഫംഗ്ഷൻ പോയിന്റിന് ശേഷം നമുക്ക് ഇത് പ്രാരംഭ മൂല്യമാണ് അതിനുശേഷം അത് പരിഷ്കരിക്കാൻ കഴിയുന്നതാണ് ഇത് എങ്ങനെ പരിഷ്കരിക്കാമെന്ന് നോക്കാം 14 പൊതുവായ സിസ്റ്റം സവിശേഷതകൾ ആൽബ്രെക്റ്റ് നിർദ്ദേശിക്കുകയും മൂല്യനിർണ്ണയ ഘടകം വിഎഎഫ് എന്നറിയാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ടിസിഎഫ് സാങ്കേതികമായി സാങ്കേതിക സങ്കീർണ്ണത ഘടകങ്ങൾ എന്നറിയപ്പെടുന്നു അതിനാൽ ഡാറ്റാ ആശയവിനിമയം വിതരണം ചെയ്ത ഡാറ്റ പ്രോസസ്സിംഗ് മുതലായവ പോലുള്ള പൊതുവായ സിസ്റ്റം സവിശേഷതകളാണ് ഇവ അന്തിമ കണക്കുകൂട്ടൽ ഇതിനകം ഈ ഫോർമുല ഉപയോഗിച്ച ക്രമീകരിക്കാത്ത ഫംഗ്ഷൻ പോയിന്റ് കണ്ടെത്തുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് തുടർന്ന് ഇത് മൂല്യ ക്രമീകരണ ഘടകമാണ് മൂല്യം ക്രമീകരണ ഘടകം കമ്പ്യൂട്ട് ചെയ്യാൻ ഒരു ഫോർമുല ഉണ്ട് അത് ഇങ്ങനെ ആണ് VAF TDI 0 01 0 65 അതിനാൽ എന്താണ് ടിഡിഐ ഇവ 14 പാരാമീറ്ററുകളായതിനാൽ 0 മുതൽ 5 വരെയുള്ള പരിധിക്കുള്ളിൽ ചില മൂല്യങ്ങൾ നൽകിയിട്ടുണ്ട് ഈ മൂല്യങ്ങളെ സ്വാധീനത്തിന്റെ അളവ് അല്ലെങ്കിൽ ഡിഐ എന്ന് വിളിക്കുന്നു ഇവിടെ 0 എന്നത് നിലവിലില്ല അല്ലെങ്കിൽ സ്വാധീനമില്ല ഒന്ന് ആകസ്മിക സ്വാധീനവും 5 പാരാമീറ്ററിന്റെ ഈ ശക്തമായ സ്വാധീനവും ഇവിടെ എഴുതിയിരിക്കുന്ന വിഎഎഫ് ന്റെ മൂല്യം എങ്ങനെ കണക്കാക്കാം ഒരു ഡിഐ യുടെ മൂല്യം നിർണ്ണയിക്കാൻ 0 മുതൽ 5 വരെയുള്ള സ്കെയിലിൽ 14 പൊതു സിസ്റ്റം സവിശേഷതകൾ ഓരോന്നും വിലയിരുത്തേണ്ടതുണ്ട് അതാണ് സ്വാധീനത്തിന്റെ അളവ് അതിനാൽ എല്ലാ 14 പൊതു സംവിധാനങ്ങൾക്കും എല്ലാ സ്വാധീനവും ചേർക്കേണ്ടതുണ്ട് ഇത് ടിഡിഐക്ക് മൊത്തം സ്വാധീനത്തിന്റെ അളവ് വർദ്ധിപ്പിക്കും മൂല്യ ക്രമീകരണ ഘടകം അല്ലെങ്കിൽ സങ്കീർണ്ണത ഘടകം എന്തുകൊണ്ടാണെന്ന് വിഎഎഫിന്റെ മൂല്യം കണ്ടെത്തുന്നതിന് ഈ ഫോർമുലയിൽ ടിഡിഐയുടെ മൂല്യം ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഫംഗ്ഷൻ പോയിന്റിന്റെ മൂല്യം പരിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനാൽ വിഎഎഫ് എന്നാൽ ടിഡിഐ ഗുണിതം 0 01 പ്ലസ് 0 65 ആണ് ഇത് ആൽബ്രെക്റ്റ് ഇതിനകം തന്നെ തന്റെ ഗവേഷണത്തിൽ നിന്ന് കണ്ടെത്തി ഈ വിഎഎഫ് അല്ലെങ്കിൽ ഈ ടിസിഎഫ് വികസന ശ്രമങ്ങളിൽ അനുബന്ധ പാരാമീറ്ററിന്റെ മൊത്തത്തിലുള്ള സ്വാധീനം പ്രകടിപ്പിക്കുന്നു അതിനാൽ ചെയ്യേണ്ട നടപടിക്രമ൦ ഇതാണ് 14 പൊതുവായ സിസ്റ്റം സവിശേഷതകൾ ഉള്ളിടത്ത് അതേ ഉദാഹരണം തുടരുമെന്ന് നമുക്ക് നോക്കാം ഈ മൂല്യങ്ങൾ ഏതാണ്ട് ശരാശരിയാണെന്ന് കരുതുക ഇത് 3 ആണ് കാരണം ഇവ 0 മുതൽ 5 വരെയുള്ള മൂല്യത്തിന്റെ ഇടയിൽ ആണ് ടിഡിഐയും എങ്ങനെ കണക്കാക്കുമെന്ന് ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒന്നിന് മൂല്യം 3 പാരാമീറ്ററുകൾ 14ഉം ആണ് അതിനാൽ 3 മുതൽ 14 വരെ അത് 42 ആണ് ടിഡിഐയെ 0 01 ലേക്ക് എത്ര പൂജ്യം പോയിന്റ് കാണുന്നു എന്നതിന് മൂല്യം ക്രമീകരണ ഘടകം 42 ആയിരിക്കും അതിനാൽ ഇത് 42 ഗുണിതം 0 01 പ്ലസ് സ്ഥിരമായ 0 65 എങ്കിൽ ഇത് 1 07 ആയിരിക്കും ഒടുവിൽ ക്രമീകരിച്ച ഫംഗ്ഷൻ പോയിന്റ് ഇനിപ്പറയുന്ന രീതിയിൽ കണക്കാക്കാം FP UFP VAF നിങ്ങൾ ക്രമീകരിക്കാത്ത ഫംഗ്ഷൻ പോയിന്റിനെ മൂല്യം ക്രമീകരണ ഘടകവുമായി ഗുണിക്കണം അതിനാൽ ഇവയ്ക്ക് ശേഷം നിങ്ങൾക്ക് 58 85 ലഭിക്കും നൽകിയിട്ടുള്ള ക്രമീകരിക്കാത്ത ഫംഗ്ഷൻ പോയിന്റായ സ്പെൽ ചെക്കർ ആപ്ലിക്കേഷന്റെ ക്രമീകരിക്കാത്ത ഫംഗ്ഷൻ പോയിന്റാണിത് ഇപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം നോക്കാം ആ പാരാമീറ്ററിന് എന്ത് സ്വാധീനമാണ് തിരഞ്ഞെടുത്തത് അത് 3 യൂണിഫോമിലാണ് പക്ഷെ ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ വ്യത്യസ്ത ഡിഐകളുള്ള 14 പൊതു സിസ്റ്റം സവിശേഷതകൾ പോലെ വ്യത്യസ്തമാണെങ്കിൽ അതായതു 3 ചിലത് 0 ചിലത് 4 ചിലത് 5 എന്നിവ പോലെ അതിനാൽ ഇത് 0 മുതൽ 5 വരെയാണ് മൊത്തം സ്വാധീനത്തിന്റെ അളവ് ഇവയുടെ സംഗ്രഹമാണ് ഇത് 36 ആണ് നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ കഴിയും ഈ മൂല്യം ക്രമീകരണ ഘടകം മുകളിലുള്ള ഫോർമുലയിൽ എത്രത്തോളം ഉൾപ്പെടുത്തും അത് 1 01 ലേക്ക് ഉയർത്തും വിഎഎഫ് കണക്കാക്കിയാൽ ക്രമീകരിച്ച ഫംഗ്ഷൻ പോയിന്റിലെ ക്രമീകരിച്ച പ്രവർത്തനം നിങ്ങൾക്ക് എളുപ്പത്തിൽ കണക്കാക്കാം ക്രമീകരിച്ച ഫംഗ്ഷൻ പോയിന്റ് എന്നാൽ യുഎഫ്പി യുടെ ഗുണിതമാണ് യുഎഫ്പി അൺഅഡ്ജസ്റ്റ്ടെഡ് ഫങ്ക്ഷൻ പോയിന്റ് ക്രമീകരിച്ച ഫംഗ്ഷൻ പോയിന്റുമായി ഗുണിച്ചാൽ ഇത് 55 55 ലേക്ക് വരുന്നു അതിനാൽ ജിഎസ്സി ജനറൽ സിസ്റ്റം സ്വഭാവഗുണങ്ങളുടെ മൂല്യങ്ങൾ ഒന്നുതന്നെയുള്ള രണ്ട് കേസുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ എടുത്തിട്ടുണ്ട് മറ്റൊരു സാഹചര്യത്തിൽ പൊതു സിസ്റ്റം സവിശേഷതകളുടെ മൂല്യം വ്യത്യസ്തമാണ് ക്രമീകരിച്ച ഫംഗ്ഷൻ പോയിന്റുകൾ എങ്ങനെ കണ്ടെത്താം അതിനാൽ മറ്റൊരു ഉദാഹരണം വളരെ ചെറിയ ഉദാഹരണമാണ് ഇത് നിങ്ങൾക്ക് ഇവിടെ സ്വയം കാണാൻ കഴിയും രണ്ട് ഇൻപുട്ടുകൾ ഉണ്ട് ഒന്ന് ഇടത്തരം മറ്റൊന്ന് ഉയർന്നത് ഇടത്തരം സങ്കീർണ്ണമായ ഔട്ട്പുട്ട് ഇടത്തരം സങ്കീർണ്ണമായ ഒരു ആന്തരിക ഫയൽ ഒരു ലളിതമായ ഇന്റർഫേസ് ഫയൽ എന്നിവയുണ്ട് അതിനാൽ അവയെല്ലാം ചേർക്കുക മൊത്തം യുഎഫ്പി ലഭിക്കുന്നത് 30 എഫ്പികൾക്ക് തുല്യമാണ് നിങ്ങൾ ഇതിനകം സമാനമായ പ്രോജക്ടുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മുമ്പത്തെ പ്രോജക്റ്റുകൾ ഒരു ദിവസത്തേക്ക് 5 ഫംഗ്ഷൻ പോയിന്റുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 ദിവസം 35 മുതൽ 30 വരെ 5 എടുക്കേണ്ടിവരുമെന്ന് എളുപ്പത്തിൽ കണക്കാക്കാം ഈ പ്രോജക്റ്റ് വികസിപ്പിക്കുന്നതിന് 6 ദിവസം നിങ്ങൾ എടുക്കണം മറ്റ് എക്സ്സർസൈസുകൾ നൽകിയിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് പരിശീലനം നടത്താം ഓരോ എക്സ്സർസൈസ്നും ക്രമീകരിക്കാത്ത ഫംഗ്ഷൻ പോയിന്റ് എന്താണെന്ന് കണ്ടെത്തുക തുടർന്ന് വിഎഎഫ് എന്താണ് അവയെല്ലാം ഗുണിക്കുക ഫംഗ്ഷൻ പോയിന്റ് രീതിയായ ആൽബ്രെക്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മൊത്തം ഫംഗ്ഷൻ പോയിൻറ് ലഭിക്കും അവസാനമായി ഇവിടെ ആൽബ്രെക്റ്റ് ഐഎഫ്പിയുജി Albrecht IFPUG function point ഫംഗ്ഷൻ പോയിൻറ് വിശകലനം ചർച്ചചെയ്തു ഇതുമായി ബന്ധപ്പെട്ട ചില ഉദാഹരണങ്ങൾ എടുത്തിട്ടുണ്ട് അടുത്ത ക്ലാസ്സിലും ഞാൻ ഇതിനായി കുറച്ച് ഉദാഹരണങ്ങൾ കൂടി എടുക്കും തുടർന്ന് എഫ്പി എണ്ണം കണക്കാക്കാൻ ഈ ഘട്ടങ്ങൾ ചർച്ചചെയ്യണം ഫംഗ്ഷൻ പോയിന്റ് വ്യത്യസ്ത പാരാമീറ്ററുകൾ എന്നിവയും അവതരിപ്പിച്ചു തുടർന്ന് അനുയോജ്യമായ ചില ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് ഐഎഫ്പിയുജി ഫംഗ്ഷൻ പോയിന്റ് എണ്ണൽ വിശദീകരിച്ചു ഈ രണ്ട് പുസ്തകങ്ങളെക്കുറിച്ചുള്ള ഒരു ആശയമാണ്നമ്മൾ പ്രധാനമായും എടുത്തത് ഇത് പരിശോധിക്കാൻ നിങ്ങൾക്ക് ഒപ്പം കഴിയും വളരെയധികം നന്ദി